ഹലോ സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എൻ എൽ മൂക്ക് കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഏഴാം ആഴ്ചയിലെ മൊഡ്യൂൾ നമ്പർ 3 ഉം പ്രഭാഷണ നമ്പർ 39 ഉം ആണ് ഈ ആഴ്ചയിൽ ഞാൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെക്കുറിച്ചുള്ള ചർച്ച ആരംഭിച്ചു ഈ മൊഡ്യൂളിൽ പ്രത്യേകിച്ചും ഞാൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ ചില അടിസ്ഥാനകാര്യങ്ങളെക്കുറിച്ചും സാർവത്രികതയെക്കുറിച്ചും സംസാരിക്കാൻ പോകുന്നു ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു ഹ്രസ്വമായ അവലോകനം നൽകട്ടെ മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ ചില അടിസ്ഥാന പ്രശ്നങ്ങൾ എടുത്തുപറഞ്ഞു പ്രത്യേകിച്ച് പൊതുവായി വാക്കാലുള്ളതും നോൺ വെർബൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പിന്നെ നമ്മൾ വരുമ്പോഴും നോൺ വെർബലിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഞാൻ സ്വമേധയാ ഉള്ള ശരീരഭാഷയിലും സ്വമേധയാ ഉള്ള ശരീരഭാഷയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു നാം ചെയ്യുന്ന നമസ്തേ ഹസ്തദാനം തുടങ്ങിയ ഔപചാരിക ആംഗ്യങ്ങളാണ് സ്വമേധയാ ഉള്ള ശരീരഭാഷ അതിനെക്കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരാണ് അതിനാലാണ് അത് പ്രശ്നമില്ലാത്തത് എന്നാൽ സ്വമേധയാ ഉള്ള ശരീരഭാഷ അത് യഥാർത്ഥത്തിൽ നമ്മുടെ ആന്തരിക ചിന്തകളുടെ ഒരു ഉപബോധമനസ്സ് പ്രതിഫലനമാണ് അതായത് ഇത് പ്രശ്നകരമാണ് കാരണം നമ്മുടെ ശരീരഭാഷയിലൂടെ മറ്റുള്ളവരോട് എന്താണ് പറയുന്നതെന്ന് നമുക്ക് യഥാർത്ഥത്തിൽ അറിയില്ല നമ്മൾ ഭയപ്പെടുന്നുണ്ടോ അമിത ആത്മവിശ്വാസമുള്ളവരാണോ നമ്മൾ പരിഭ്രാന്തരാകുന്നുണ്ടോ അതിനാൽ നിങ്ങൾക്ക് ഇത് നിയന്ത്രിക്കണമെങ്കിൽപ്പോലും മറ്റുള്ളവരെ പ്രകടിപ്പിക്കാനും സൂചനകൾ നൽകാനും നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തെ ഉപയോഗിക്കുന്നു പ്രശ്നങ്ങളുടെ കാര്യത്തിൽ മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ സംസാരിച്ച മറ്റൊരു രസകരമായ ഘടകം രൂപഭാവവുമായി ബന്ധപ്പെട്ടതാണ് അതിനാൽ നിങ്ങളുടെ രൂപത്തെക്കുറിച്ച് നിങ്ങൾ ശരിക്കും വിഷമിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളോട് പറയുന്നതിനായി ഞാൻ ഇത് ഹൈലൈറ്റ് ചെയ്തു കാരണം നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ ആകർഷകമോ കൂടുതൽ ബുദ്ധിയുള്ളവരോ ആയ ആളുകൾ കൂടുതൽ കഴിവുള്ളവരായിരിക്കണം തങ്ങൾ പൊതുവെ കൂടുതൽ ബുദ്ധിയുള്ളവരും കഴിവുള്ളവരുമാണെന്ന് ആളുകൾ കരുതുന്നു അതിനാൽ അവരെ ജോലിക്കെടുക്കണം വേഗത്തിൽ സ്ഥാനക്കയറ്റം നൽകണം അതിനാൽ വർദ്ധനയുടെ കാര്യത്തിൽ അവർക്ക് കൂടുതൽ പണം നൽകണം ഇപ്പോൾ രസകരമായ കാര്യം ഇത് സ്ഥിരീകരിക്കുന്നതിന് വസ്തുതാപരമായ അടിസ്ഥാനമൊന്നുമില്ല എന്നതാണ് എന്നാൽ നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പുതന്നെ സൃഷ്ടിക്കപ്പെടുന്നത് 93 ശതമാനം മതിപ്പ് വരുന്ന നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ സ്വാധീനമാണ് അതിനാൽ അത് യഥാർത്ഥത്തിൽ ഈ രൂപത്തിന് അത് അർഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന സ്വാധീനം നൽകുന്നു അതിനാൽ അത് ചെയ്യാൻ ശ്രമിക്കുന്നു അതിനാൽ നിങ്ങളുടെ രൂപത്തെക്കുറിച്ച് നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അതിനാൽ ഇത് ശാരീരിക വശങ്ങളുടെ കാര്യത്തിൽ മനോഹരമായി കാണുന്നതിനെക്കുറിച്ചല്ല മറിച്ച് നിങ്ങളെത്തന്നെ വളർത്തുന്നതിലും നിങ്ങളുടെ ശരീരഭാഷയെ പരിപാലിക്കുന്നതിലും എല്ലാം നന്നായി കാണുന്നതിനെക്കുറിച്ചാണ് പിന്നീട് ഞാൻ നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ തരങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഏഴ് തരങ്ങളെക്കുറിച്ചും സംസാരിച്ചു കൈനെസിക്സ് യഥാർത്ഥത്തിൽ ശരീര ചലനത്തെയും ആംഗ്യത്തെയും പൊതുവായി സൂചിപ്പിക്കുന്നു മുഖഭാവങ്ങൾ നമ്മൾ സംസാരിച്ച ഒന്നാണ് തുടർന്ന് നമ്മൾ ആറ് അടിസ്ഥാന മുഖഭാവങ്ങൾ നോക്കി ഒക്കുലോസിക്സ് എന്നത് കണ്ണിന്റെ നോട്ടത്തെക്കുറിച്ചാണ് തുടർന്ന് ഇവിടെ ഞാൻ ഡൈലേഷനെക്കുറിച്ചും സങ്കോചത്തെക്കുറിച്ചും സംസാരിച്ചു നിങ്ങളുടെ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പെരുമാറ്റം നോക്കിക്കൊണ്ട് ആളുകൾക്ക് വളരെ ഉയർന്ന വിലയ്ക്ക് എന്തെങ്കിലും വിൽക്കാനുള്ള നിങ്ങളുടെ താൽപ്പര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും ഹാപ്റ്റിക്സ് എന്നത് സ്പർശനവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ശിശുവിന് ബന്ധമുണ്ടെന്ന് നമുക്കറിയാം തുടർന്ന് അത് ഒരാൾ വളരുമ്പോഴും തുടരുന്ന ഒന്നാണ് തുടർന്ന് സ്പർശനത്തിനോ സ്പർശനത്തിൻറെ അഭാവത്തിനോ എത്രത്തോളം അടുപ്പം വ്യക്തിപരമായ ബന്ധങ്ങളിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ആശ്വാസത്തിൻറെ അളവ് എന്നിവ പറയാൻ കഴിയും അപ്പോൾ ഞാൻ പ്രോക്സിമിക്സിനെക്കുറിച്ച് സംസാരിച്ചു അത് ഇന്റർപേഴ്സണൽ സ്പേസ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് തുടർന്ന് അത് എങ്ങനെ ഉപയോഗിക്കണം ഒരു വ്യക്തി ഒരാളുമായി അടുക്കുമ്പോൾ എന്താണ് നിർദ്ദേശിക്കുന്നത് ഇഷ്ടപ്പെടുമ്പോഴോ ഇഷ്ടപ്പെടാത്തപ്പോഴോ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഒരാളുമായി അടുത്ത് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരാളുമായി അകലം പാലിക്കുന്നത് അതിനാൽ ഇവയാണ് നമ്മൾ നോക്കിയ കാര്യങ്ങൾ തുടർന്ന് ആളുകൾക്ക് ഉള്ള മോണോക്രോണിക് പോളിക്രോണിക് സമയ കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ട കാലഗണനയിൽ ഞാൻ കുറച്ച് സമയം ചെലവഴിച്ചു പിന്നെ ഞാൻ പറഞ്ഞു സാംസ്കാരിക വ്യത്യാസങ്ങളുണ്ടെന്ന് പക്ഷേ കോർപ്പറേറ്റ് സംസ്കാരത്തിന്റെ കാര്യത്തിൽ അവ മിക്കപ്പോഴും ഏകവർണ്ണ സമയ ധാരണയിലേക്ക് പോകുന്നു അതിനാൽ സമയം പ്രധാനമാണ് സമയം ബജറ്റ് ചെയ്തിരിക്കുന്നു സമയം റേഷൻ ചെയ്തിരിക്കുന്നു സമയം പണമാണ് അതിനാൽ നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വവും നിങ്ങൾ സമയം ഉപയോഗിക്കുന്ന രീതിയിലാണ് അളക്കുന്നത് അതിനാൽ നിങ്ങൾ ഇത് വളരെ മിതവ്യയത്തോടെ വളരെ ആസൂത്രിതമായ സ്ഥിരമായ രീതിയിൽ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കണം പാരാലിംഗ്വിസ്റ്റിക്സിനെക്കുറിച്ചും ഒരുതരം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ടാണ് ഞാൻ പ്രഭാഷണം അവസാനിപ്പിച്ചത് ഇത് ശബ്ദ സൂചനകളെയും നിശബ്ദതയെയും സൂചിപ്പിക്കുന്നു പക്ഷേ നിശബ്ദത ഒരുപക്ഷേ വാഗ്മിത്വത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണെന്നും നിങ്ങൾ അത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതുണ്ടെന്നും ഞാൻ നിങ്ങളുമായി ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നു കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫലങ്ങൾ നേടുമെന്നത് ഒരുതരം തെറ്റിദ്ധാരണയാണ് എന്നാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നേടാൻ പലപ്പോഴും നിങ്ങൾക്ക് നിശബ്ദത ഉപയോഗിക്കാം അതോടെ ഞാൻ പ്രഭാഷണം അവസാനിപ്പിച്ചു ഇതിൽ ഞാൻ ശരീരഭാഷയുടെ അടിസ്ഥാനകാര്യങ്ങളെക്കുറിച്ചും സാർവത്രികതയെക്കുറിച്ചും സംസാരിക്കാൻ പോകുമ്പോൾ ചില ആംഗ്യങ്ങൾക്ക് സാംസ്കാരികമായി വ്യത്യസ്ത അർത്ഥമുണ്ടെന്ന് ആദ്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഞാൻ മുൻപിലും പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ അത് പരിഗണിക്കാതെ തന്നെ സാംസ്കാരിക വ്യത്യാസങ്ങളുണ്ടെങ്കിലും സാർവത്രികമായി സ്വീകാര്യമായ ചില ആവിഷ്കാരങ്ങളുണ്ട് വാസ്തവത്തിൽ ഇതിനകം പട്ടികപ്പെടുത്തിയിരിക്കുന്ന പലതും നമ്മെ സഹായിക്കാൻ പോകുന്ന സാർവത്രിക പദപ്രയോഗങ്ങളുടെ ചില പൊതു സെറ്റുകൾ നോക്കാൻ പോകുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു രസകരമായ കാര്യം അവയിൽ മിക്കതും പാശ്ചാത്യ ആശയങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചത് ജീവിവർഗങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പുസ്തകവും തുടർന്ന് മനുഷ്യന്റെ പെരുമാറ്റത്തെ ചിമ്പാൻസികളുടെ പെരുമാറ്റവുമായി ബന്ധിപ്പിക്കുന്ന ഡാർവിന്റെ സിദ്ധാന്തവും തുടർന്നുള്ള നിരവധി പഠനങ്ങളും അതിനാൽ അവയെല്ലാം യഥാർത്ഥത്തിൽ പടിഞ്ഞാറിൽ നിന്നാണ് ആരംഭിച്ചത് അതിനാൽ നമ്മൾ സാധാരണയായി സാർവത്രികമായി കണക്കാക്കുന്ന ശരീരഭാഷയുടെ ആവിഷ്കാരങ്ങളെല്ലാം പാശ്ചാത്യ പുസ്തകങ്ങളിൽ നിന്നാണ് വരുന്നത് അതിനാൽ അവ പ്രത്യേകിച്ചും ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പ്രയോഗിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വിവേചനാധികാരം ഉപയോഗിക്കേണ്ടതുണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് സന്ദർഭം നോക്കേണ്ടതുണ്ട് വ്യതിയാനങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട് മുതിർന്നവരുടെ പാദങ്ങൾ തൊടുന്ന മുൻ പ്രഭാഷണത്തിൽ ഞാൻ ഹ്രസ്വമായി പരാമർശിച്ച ലളിതമായ ഉദാഹരണം നോക്കൂ ഇപ്പോൾ പാശ്ചാത്യ പശ്ചാത്തലത്തിൽ നിങ്ങൾ പോയി മുതിർന്നവരുടെ പാദങ്ങൾ സ്പർശിക്കുകയാണെങ്കിൽ അത് അടിമത്തമായി കണക്കാക്കപ്പെടുന്നു അത് ഒരു ബോസ് ജൂനിയർ അല്ലെങ്കിൽ കീഴുദ്യോഗസ്ഥ ബന്ധം ആണെങ്കിൽ നിങ്ങൾ മുഖസ്തുതി നടത്താൻ ശ്രമിക്കുകയാണെന്ന് കണക്കാക്കപ്പെടുന്നു നിങ്ങൾ സത്യസന്ധനല്ലെന്നും ഏറ്റവും മോശം അവസ്ഥയിൽ നിങ്ങൾ സംസ്കാരമില്ലാത്തവനാണെന്നും കണക്കാക്കപ്പെടുന്നു ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ആരെങ്കിലും പ്രത്യേകിച്ച് മുതിർന്ന വ്യക്തിയുടെ പാദങ്ങളിൽ സ്പർശിക്കുന്നത് നേരെ വിപരീതമാണ് അവളുടെ പാദങ്ങൾ തൊടുന്ന ഒരാളെ മുതിർന്നയാൾ ആദരവും ആത്മാർത്ഥതയും നല്ല പെരുമാറ്റവും സംസ്കാരവുമുള്ള ഒരാളായി കാണുന്നു വാസ്തവത്തിൽ കുടുംബം യഥാർത്ഥത്തിൽ ഈ വ്യക്തിയെ വളരെ നല്ലതും സാംസ്കാരികമായി സ്വീകാര്യവുമായ രീതിയിൽ പരിശീലിപ്പിച്ചതായി അവർ കരുതുന്നു ഇപ്പോൾ ഈ വ്യതിയാനങ്ങൾ നോക്കൂ എന്നാൽ അതേ സമയം ഇന്ന് നമ്മൾ ഒരു ആഗോള സാഹചര്യത്തിലാണ് അതിനാൽ സംസ്കാരങ്ങളുടെ പ്രത്യേകത യഥാർത്ഥത്തിൽ വിഘടിക്കപ്പെടുകയും വിഘടിക്കപ്പെടുകയും ചെയ്യുന്ന ഈ ആഗോളവൽക്കരിക്കപ്പെട്ട സംസ്കാരത്തിലാണ് നാം ജീവിക്കുന്നത് അതിനാൽ കോർപ്പറേറ്റ് സംസ്കാരവും ബഹുരാഷ്ട്ര സംസ്കാരവും യഥാർത്ഥത്തിൽ വ്യക്തിവാദം നീക്കം ചെയ്യുകയും എല്ലാവർക്കും പൊതുവായവ അവതരിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ സന്ദർഭത്തിൽ നിങ്ങൾ വീണ്ടും ഒരു പ്രൊഫഷണൽ അർത്ഥത്തിൽ അറിയേണ്ടതുണ്ട് സാർവത്രികതകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയുന്ന അടിസ്ഥാനകാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വികാരങ്ങളുടെ ആവിഷ്കാരമായി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല മതിപ്പ് സൃഷ്ടിക്കാൻ ശ്രമിക്കാം പ്രതിരോധ ആംഗ്യത്തിൻറെ കാര്യത്തിൽ ചില അടിസ്ഥാനകാര്യങ്ങൾ നോക്കുക ഇപ്പോൾ കൈകൾ മുറിച്ചുകടക്കുന്നു അതിനാൽ കൈകൾ മുറിച്ചുകടക്കുന്നു പക്ഷേ ചെറുതായി ചരിഞ്ഞിരിക്കുന്നു അതിനാൽ ഇത് അൽപ്പം മന്ദഗതിയിലാണ് കാലുകളും നേരെയല്ല തുടർന്ന് ഇത് ചിലപ്പോൾ ഒരുമിച്ച് വലിക്കുന്നു ഇപ്പോൾ ഈ ചെറുതായി ചരിഞ്ഞ ഒന്ന് അരക്ഷിതാവസ്ഥ മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള താൽപ്പര്യക്കുറവ് മറ്റൊരാളിലുള്ള വിശ്വാസക്കുറവ് എന്നിവയെ സൂചിപ്പിക്കുന്നു കൂടാതെ വ്യക്തി അതിനെ ചെറുതായി ചരിഞ്ഞ രീതിയിൽ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുതരം ആന്തരിക അസ്വസ്ഥതയുണ്ട് എന്നിരുന്നാലും നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ ഇരിക്കുകയും എന്നിട്ട് നിങ്ങൾ അത് പിടിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ സഹാനുഭൂതിയുള്ളവരാണെന്ന് അർത്ഥമാക്കാം നിങ്ങൾ സംസാരിക്കുന്ന മറ്റൊരാളോട് നിങ്ങൾ സഹതാപം പുലർത്തുന്നു എന്നാണ് ഞാൻ ഇടപെടാൻ പോകുന്നില്ലെന്ന് നിങ്ങൾ നിർദ്ദേശിക്കുന്നു അതിനാൽ ഞാൻ എന്റെ എല്ലാ ശരീരഭാഷയും നിയന്ത്രിക്കുന്നു ഞാൻ വെറുതെ ഇരിക്കുകയാണ് ഞാൻ നിങ്ങളോട് മുഴുവൻ ശരീരവുമാണ് എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കുന്നു അതിനാൽ അത് സഹാനുഭൂതിയെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ ഇത് ഒരു കുറ്റകരമായ ആംഗ്യമായി മാറുമോ ഞാൻ ചുവടെ നൽകിയ ചിത്രം നോക്കുക അതിനാൽ കൈകൾ വളരെ നേരെയായും ഇറുകിയതായും തുടർന്ന് കാലുകൾ ഉറച്ചതും തുറന്ന നിലയിലും മുറിച്ചുകടക്കുന്നത് ആത്മവിശ്വാസത്തെ സൂചിപ്പിക്കുന്നു അത് സംതൃപ്തിയെ സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ചും സ്വാമി വിവേകാനന്ദന്റെ നമ്മുടെ പ്രശസ്തമായ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ നോക്കുമ്പോഴെല്ലാം അദ്ദേഹം കൈകൾ മുറിച്ചുകടക്കുകയാണെന്ന് കാണിക്കുന്നു എന്നാൽ പാശ്ചാത്യ പശ്ചാത്തലത്തിൽ കാണാനാകുന്നതുപോലെ അദ്ദേഹം ഒരു ആക്രമണാത്മക ആംഗ്യം കാണിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നില്ല പ്രതിരോധവും കാണിക്കുന്നില്ല എന്നാൽ ഇത്തരത്തിലുള്ള ഒന്ന് പ്രത്യേകിച്ച് കാലുകൾ തുറന്നിരിക്കുമ്പോൾ കൈകൾ യഥാർത്ഥത്തിൽ മുറിച്ചുകടക്കുന്നു അതിനാൽ അത് ആത്മവിശ്വാസത്തെ സൂചിപ്പിക്കാൻ കഴിയും അത് സംതൃപ്തിയെ സൂചിപ്പിക്കാനും കഴിയും ഞാൻ എന്നിൽ തന്നെ സംതൃപ്തനാണ് അത് എളിമയെ സൂചിപ്പിക്കാൻ കഴിയും അത് താഴ്മയെ സൂചിപ്പിക്കാൻ കഴിയും എന്നാൽ അങ്ങേയറ്റത്തെ സാഹചര്യത്തിൽ ഞാൻ മറ്റൊരു കണക്ക് താഴ്ത്തിയിരിക്കുമ്പോൾ അതിന് അഹങ്കാരത്തെ സൂചിപ്പിക്കാൻ കഴിയും എനിക്ക് നിങ്ങളെക്കാൾ ശക്തനാണെന്ന് കാണിക്കാൻ കഴിയും നിങ്ങൾക്ക് എന്നോട് എന്തുചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ അതിനാൽ അത് അത്തരം മനോഭാവത്തെയും സൂചിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് സാധാരണയായി ഏത് തരത്തിലുള്ള ക്രോസിംഗ് ആംഗ്യങ്ങളും പ്രതിരോധാത്മകമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ആളുകൾ ഹാൻഡ്ബാഗ് ഉപയോഗിക്കുന്നതിലും മറ്റും അത്തരം ക്രോസിംഗ് ആംഗ്യങ്ങൾ ഉപയോഗിക്കുന്നു കാലുകളിലേക്ക് നോക്കൂ ഇപ്പോൾ നമ്മുടെ കാലുകൾ ആകർഷണത്തെയും വെറുപ്പിനെയും സൂചിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്താൽ നിങ്ങൾ ആരോടെങ്കിലും ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കാലുകൾ ആ ദിശയിലേക്ക് വിരൽ ചൂണ്ടും അവർ പറയുന്ന ഈ സ്വതസിദ്ധമായ പ്രതികരണം സാധാരണയായി നിങ്ങളുടെ കാലുകൾ തുറന്നിരിക്കുന്നതുപോലെ അത് ആ വ്യക്തിയിലേക്ക് വിരൽ ചൂണ്ടുന്നു അതിനാൽ നിങ്ങൾ ആ വ്യക്തിയുമായുള്ള ഒരു സംഭാഷണത്തെ സ്വാഗതം ചെയ്യുന്നു തുടർന്ന് നിങ്ങൾക്ക് ആ വ്യക്തിയിൽ താൽപ്പര്യമുണ്ട് എന്നാൽ ഇത് ഇഷ്ടപ്പെടാത്തതിനെ അർത്ഥമാക്കാം കാലുകൾ ഉപയോഗിക്കുന്ന രീതി അവ പിൻവലിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുമായി സംസാരിക്കാൻ നിങ്ങൾ ശരിക്കും ചായ്വുള്ളവരല്ലെന്ന് അർത്ഥമാക്കാം അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം നോക്കൂ നിങ്ങൾ പരസ്പരം സംസാരിക്കുന്ന രണ്ട് പേരെ സമീപിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ സഹപാഠികളാണ് ഇപ്പോൾ ആളുകളുടെ കാലുകൾ യഥാസ്ഥാനത്ത് നിൽക്കുകയും അവർ അവരുടെ ടോർസോസ് മാത്രം വളയ്ക്കുകയും ചെയ്താൽ അവർ നിങ്ങളെ നോക്കുകയും തുടർന്ന് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നു പക്ഷേ അവർ പൂർണ്ണമായും നിങ്ങളുടെ നേരെ തിരിഞ്ഞ് കാലുകൾ തുറന്നിടാറില്ല അതിനാൽ നിങ്ങൾ സംഭാഷണത്തിൽ ചേരാൻ അവർ ആഗ്രഹിക്കുന്നില്ലെന്നും വാസ്തവത്തിൽ നിങ്ങളുടെ ചേരൽ അവർ ഇഷ്ടപ്പെടുന്നില്ലെന്നും ഇത് സൂചിപ്പിക്കുന്നു എന്നാൽ മറുവശത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ചേരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ കാലുകൾ തുറന്നിരിക്കും അത് നിങ്ങളെ ചേരാൻ സ്വാഗതം ചെയ്യുന്നുവെന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ മുഖം മനസ്സിൻ്റെ സൂചികയാണെന്നും അത് ഒരു വ്യക്തിയെക്കുറിച്ച് എല്ലാം നൽകുന്നുവെന്നും നമ്മൾ കരുതുന്നുണ്ടെങ്കിലും വ്യക്തി എന്താണ് ചിന്തിക്കുന്നതെന്നും വ്യക്തി വളരെ സ്വമേധയാ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നും വളരെ പ്രധാനപ്പെട്ട സൂചനകൾ നൽകാനും കാലുകൾക്ക് കഴിയും ആകർഷണത്തിന്റെ കാര്യത്തിൽ കൂടുതൽ അടിസ്ഥാനകാര്യങ്ങളും സാർവത്രികതകളും നോക്കൂ പുരുഷന്മാർ ഇടയ്ക്കിടെ സംസാരിക്കുമ്പോൾ ഒരു ചെവി ലോബ് ഉപയോഗിച്ച് കളിക്കുന്നു അതിനാൽ അവർ സംസാരിക്കുന്ന വ്യക്തിയിലേക്ക് ആകർഷിക്കപ്പെടുന്നുവെന്ന് സൂചിപ്പിക്കുന്നു സ്ത്രീകളുടെ കാര്യത്തിൽ അവർ മുടിയുടെ പൂട്ട് ഉപയോഗിച്ച് കളിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവർ മുടി മുൻവശത്ത് വയ്ക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവർ മുടി ചെവികൾക്ക് പിന്നിൽ ഇടുകയോ ചെയ്യുന്നു അതിനാൽ ഈ ആംഗ്യങ്ങൾ അവർ പറയുന്നു പ്രത്യേകിച്ചും അത് അയഞ്ഞതായി ഉപേക്ഷിച്ച് മുന്നിൽ വയ്ക്കുന്നത് അവർ സാധാരണയായി പറയുന്നത് കുറഞ്ഞത് മുന്നിലുള്ള വ്യക്തിയുമായി സംസാരിക്കാൻ അവർക്ക് താൽപ്പര്യമുണ്ടെന്ന് കാണിക്കുന്നു എന്നാണ് അവർ ആ വ്യക്തിയുമായി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു ഇല്ലെങ്കിൽ അത് വളരെ ഗുരുതരമായ തരത്തിലുള്ള ആകർഷണത്തിലേക്ക് നയിക്കുന്നു പക്ഷേ കുറഞ്ഞത് അവർ ഭയപ്പെടുന്നില്ല ഈ വ്യക്തിയുമായി സംസാരിക്കുന്നതിൽ അവർക്ക് തടസ്സമില്ല നേരെമറിച്ച് ചെവി മെഴുക് കുഴിക്കുന്ന പുരുഷന്മാർ പ്രത്യേകിച്ച് അവർ പേന കവർ എടുത്ത് ഉപയോഗിക്കുകയും തുടർന്ന് ചെവി മെഴുക് കുഴിക്കുകയോ മൂക്ക് എടുക്കുകയോ ചെയ്യാം പ്രത്യേകിച്ചും സ്ത്രീകളുമായി ആശയവിനിമയം നടത്തുമ്പോൾ അവർ വൃത്തികെട്ടവരോ വികൃതരോ ആണെന്ന് കരുതപ്പെടുന്നു അതിനാൽ അവരുടെ മൂക്ക് എടുക്കുന്നതിലൂടെയോ ചെവിയുടെ മെഴുക് കുഴിക്കാൻ ശ്രമിക്കുന്നതിലൂടെയോ സൂചിപ്പിക്കുന്ന ചില വികലമായ ചിന്തകൾ നടക്കുന്നതിനാൽ പ്രത്യേകിച്ചും അവർ ആരുമായും ആശയവിനിമയം നടത്തുമ്പോൾ അതിനാൽ അവർ ഇത് അബദ്ധത്തിൽ ചെയ്യുന്നു അവർക്ക് അത് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാൽ എതിർവശത്ത് ഇരിക്കുന്ന വ്യക്തിക്ക് ചിന്തകൾ വളരെ വ്യക്തമല്ലെന്ന് മനസ്സിലാക്കാൻ കഴിയും അടിസ്ഥാനകാര്യങ്ങളുടെയും സാർവത്രികതയുടെയും കാര്യത്തിൽ അതിനുമുമ്പ് ഞാൻ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്ന ഏതൊരു ആംഗ്യവും തുറന്നിട്ടുണ്ടെങ്കിൽ അത് കടക്കുന്നതായി കരുതപ്പെടുന്നില്ല അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള തുറന്ന മനസ്സ് തുറന്ന കൈകൾ തുറന്ന കൈപ്പത്തികൾ പൂർണ്ണമായും മൂടിയിട്ടില്ലാത്തതും എന്നാൽ അനാവശ്യവുമായ അങ്കി പോലും അതിനാൽ ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് ഞാൻ തുറന്ന മനസ്സുള്ളയാളാണെന്നും സത്യസന്ധനാണെന്നും സത്യസന്ധനാണെന്നും നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും ആണ് മറുവശത്ത് പ്രതിരോധശേഷി കൈകൾ മുറിച്ചുകടക്കുക തുടർന്ന് സംസാരിക്കുമ്പോൾ അവർ വശത്തേക്ക് നോക്കുക അവർ കണ്ണുമായി സമ്പർക്കം പുലർത്തുകയോ സ്പർശിക്കുകയോ മൂക്കിൽ തടവുകയോ കണ്ണുകൾ തിരുകുകയോ ബട്ടൺ കോട്ട് വലിച്ചെടുക്കുകയോ ചെയ്യുന്നില്ല അതിനാൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റേയാൾ മാറിനിൽക്കുന്നു അതിനാൽ മറ്റേയാൾ ഒരു പരിധിവരെ പ്രതിരോധ രീതിയിലാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു അശ്രദ്ധമായി നിരവധി ലളിതമായ വഴികളിലൂടെ സൂചിപ്പിക്കപ്പെടുന്നു എന്നാൽ മിക്കപ്പോഴും നമ്മൾ അത് അശ്രദ്ധമായി ചെയ്യുന്നു മാംസം പിഞ്ച് ചെയ്യുക അതിനാൽ നിങ്ങൾ സ്വയം പിഞ്ച് ചെയ്യാൻ ശ്രമിക്കുക തുടർന്ന് പേന ചവയ്ക്കുകയോ എന്തെങ്കിലും ചവയ്ക്കുകയോ ചെയ്യുക ചില ആളുകൾ കോളർ ചവയ്ക്കുന്നു അതിനാൽ അവരുടെ കൈയിലുള്ളതെന്തും അവർ ചവയ്ക്കുന്നു ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ച്യൂയിംഗ് ഗം ചവയ്ക്കുമ്പോഴും ഇത് ഒരുതരം മാനസിക അരക്ഷിതാവസ്ഥയാണെന്ന് ആളുകൾ പറയുന്നു തള്ളവിരലിന് മുകളിൽ തള്ളവിരൽ വയ്ക്കുന്നത് പോലെ വിരൽ നഖങ്ങൾ കടിക്കുന്നത് പോലെ ഇവയെല്ലാം അരക്ഷിതാവസ്ഥയുടെ ലക്ഷണങ്ങളാണ് പക്ഷേ വിപരീത സഹകരണം നിങ്ങളുമായി സഹകരിക്കാൻ ആരെങ്കിലും തയ്യാറാണെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും സ്പ്രിന്ററുടെ സ്ഥാനത്തുള്ള മുകളിലെ ശരീരം അതിനാൽ സ്പ്രിന്റർ സ്പ്രിന്റ് ചെയ്യാൻ പോകുന്ന വ്യക്തിയെപ്പോലെയാണ് അതിനാൽ മറ്റേ വ്യക്തിയോട് ചെറുതായി ചായുന്നു അതിനാൽ പിൻവലിക്കുന്നതിന് പകരം മറ്റേ വ്യക്തിക്ക് താൽപ്പര്യമുണ്ടെന്ന് ഈ ചെറിയ ചായ്വ് കാണിക്കുന്നു അതിനാൽ നിങ്ങൾ കൂടുതൽ പിന്നോട്ട് ചായുമ്പോൾ നിങ്ങൾ നിസ്സംഗത പുലർത്തുന്നു നിങ്ങൾ പിന്നോക്കം പോകുന്നു നിങ്ങൾക്ക് സംഭാഷണത്തിൽ താൽപ്പര്യമില്ല നിവർന്നുനിൽക്കുമ്പോൾ നിങ്ങൾ ഒരു പരിധിവരെ നിഷ്പക്ഷനാണ് എന്നാൽ മുന്നിലുള്ള വ്യക്തിയോട് ചെറുതായി ചായുന്നത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സംഭാഷണത്തിൽ താൽപ്പര്യമുണ്ടെന്നും ആ വ്യക്തിയുമായി സംസാരിക്കാൻ താൽപ്പര്യമുണ്ടെന്നും സൂചിപ്പിക്കുന്നു കസേരയുടെ അരികിൽ ഇരുന്ന് നിങ്ങൾ ഇത് എപ്പോൾ ചെയ്യുമെന്ന് ഓർക്കുക പ്രത്യേകിച്ചും നിങ്ങൾ ഒരു ത്രില്ലർ കാണുമ്പോൾ ഒരു സസ്പെൻസ് സിനിമ കാണുമ്പോൾ നിങ്ങൾ വളരെയധികം മുഴുകിയിരിക്കുന്ന ഏതെങ്കിലും ഇവന്റ് കാണുമ്പോൾ അതിനാൽ തുടക്കത്തിൽ സിനിമ ആരംഭിക്കുമ്പോൾ നിങ്ങൾ ഇരിപ്പിടത്തിന്റെ പിൻഭാഗത്ത് വിശ്രമിക്കുന്നു സിനിമ വികസിക്കുമ്പോൾ പതുക്കെ അത് നിങ്ങൾക്ക് വളരെ ആവേശകരമാണ് അതിനാൽ നിങ്ങൾ അവസാന ക്ലൈമാക്സിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ സീറ്റിന്റെ അരികിലാണ് എന്താണ് സംഭവിക്കുന്നതെന്നും ആരാണ് ഇത് ചെയ്തതെന്നും കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ കസേരയുടെ അരികിൽ ഇരിക്കുന്നത് നിങ്ങൾ സഹകരിക്കുന്നുണ്ടെന്ന് കാണിക്കും നിങ്ങളുടെ മുന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആഴത്തിൽ താൽപ്പര്യമുണ്ട് കൈകൊണ്ട് അഭിമുഖമായ ആംഗ്യങ്ങളും അൺബട്ടണിംഗ് കോട്ടും അതിനാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സഹകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് എല്ലാം സൂചിപ്പിക്കും ഇപ്പോൾ ആത്മവിശ്വാസം ഇത് ആ വ്യക്തിക്ക് ഭാവപ്രകടനത്തിലൂടെ വരുന്ന ഒന്നല്ല മറിച്ച് സാധാരണയായി വ്യക്തി സ്റ്റെപ്പിൾ ചെയ്ത കൈകൾ പോലെ ആത്മവിശ്വാസമുള്ളപ്പോൾ പിന്നെ പുറകോട്ട് കൈവെക്കുന്നു അതിനാൽ ഉദാഹരണത്തിന് ഇരിക്കുമ്പോൾ വ്യക്തിയെ ഇതുപോലെ നിർത്തുന്നു പുറം കടുപ്പമുള്ളതാക്കുന്നു അങ്ങനെ നിവർന്ന് നിൽക്കുന്നു കോട്ട് പോക്കറ്റുകളിൽ കൈകൾ തള്ളവിരൽ കൊണ്ട് കോട്ടിൻറെ മടിയിൽ കൈകൾ ഇപ്പോൾ കോട്ട് പോക്കറ്റിൽ തള്ളവിരലുകളുള്ള കൈകൾ ആത്മവിശ്വാസം കാണിക്കുന്നു എന്നാൽ കോട്ട് പോക്കറ്റുകളിലെ വിരൽ ഉള്ള കൈകൾക്ക് ആ വ്യക്തി പ്രതിരോധത്തിലാണെന്ന് കാണിക്കാൻ കഴിയും കോട്ടിനുള്ളിലെ കൈകൾ ആത്മവിശ്വാസത്തെ സൂചിപ്പിക്കുന്നു പക്ഷേ കൈകൾ കോട്ടിനുള്ളിൽ എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് അരക്ഷിതാവസ്ഥയെ സൂചിപ്പിക്കുന്നു പരിഭ്രാന്തി എങ്ങനെ സൂചിപ്പിക്കുന്നു ഇടയ്ക്കിടെ തൊണ്ട വൃത്തിയാക്കുന്നത് പ്രത്യേകിച്ച് ഒരു സംസാരത്തിൽ ഇത് വീണ്ടും പരിഭ്രാന്തിയെ സൂചിപ്പിക്കാം പക്ഷേ മുറി വളരെ തണുപ്പാണെങ്കിൽ അല്ലെങ്കിൽ വ്യക്തി യഥാർത്ഥത്തിൽ കടുത്ത ജലദോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് ചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങൾ വിവേചനാധികാരം ഉപയോഗിക്കണം അടുത്ത പ്രഭാഷണത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കും എന്നാൽ ഇപ്പോൾ ആരെങ്കിലും തൊണ്ട വൃത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ അടിസ്ഥാന കാര്യങ്ങൾ സാധാരണയായി വ്യക്തി പരിഭ്രാന്തനാണ് പ്രത്യേകിച്ച് ഒരു പ്രസംഗം നടത്താൻ വ്യക്തിയോട് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഇരുട്ടിൽ വിസിലടിക്കുമ്പോൾ വ്യക്തി നീങ്ങുമ്പോൾ ഇരുട്ടിനെ ഭയപ്പെടുന്നു അതിനാൽ ഒരു വ്യക്തി അത്ര ഭയപ്പെടുന്നില്ലെന്നും കുറച്ച് ധൈര്യം ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ആശയവിനിമയം നടത്താനുള്ള ഒരു മാർഗമാണ് വിസിലിംഗ് എന്നാൽ യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ അസ്വസ്ഥതയുണ്ട് പുകവലി പ്രത്യേകിച്ച് അഭിമുഖത്തിന് മുമ്പ് പ്രത്യേകിച്ച് നിങ്ങളുടെ ബോസിനെ കാണുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് നിങ്ങൾ പോയി വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് അത് പരിഭ്രാന്തിയെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ വിരൽ കൊണ്ടോ കാൽ കൊണ്ടോ ചെയ്യുന്നതാണ് പിഞ്ച് മാംസം ഫിഡ്ജെറ്റിംഗ് ഫിഡ്ജെറ്റിംഗ് അതിനാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിരലുകൾ അങ്ങനെ പെരുമാറുന്നത് സംസാരിക്കുമ്പോൾ വായ മൂടുക എന്നതിനർത്ഥം നിങ്ങൾ എന്തെങ്കിലും മറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും കള്ളം പറയുകയാണെന്നും അർത്ഥമാക്കാം എന്നാൽ അതേ സമയം നിങ്ങൾ യഥാർത്ഥത്തിൽ കള്ളം പറയുകയാണെന്ന് ആരെങ്കിലും കണ്ടെത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾ പരിഭ്രാന്തരാണ് പോക്കറ്റിൽ നിന്ന് പണമോ താക്കോലുകളോ ചവിട്ടുന്നു അതിനാൽ നിങ്ങൾ കുറച്ച് താക്കോലുകൾ സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ചിരിക്കാൻ ശ്രമിക്കുന്നു ചെവികൾ പിടിക്കുക അത് വലിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മടക്കാൻ ശ്രമിക്കുക അകത്ത് വയ്ക്കുക തുടർന്ന് കൈകൾ റിംഗ് ചെയ്യുക അതിനാൽ ഇവയെല്ലാം പരിഭ്രാന്തിയെ സൂചിപ്പിക്കുന്നു നിരാശ ഒരു വ്യക്തി നിരാശനാകുമ്പോൾ സാധാരണയായി അവൻ ചെറിയ ശ്വാസം എടുക്കുകയോ കൈകൾ മുറുകെ പിടിക്കുന്നതുപോലെ ശബ്ദമുണ്ടാക്കുകയോ ചെയ്യുന്നു അതിനാൽ കൈകൾ റിംഗ് ചെയ്യുന്നത് പരിഭ്രാന്തിയെ സൂചിപ്പിക്കുന്നു എന്നാൽ കൈകൾ റിംഗ് ചെയ്യുന്നതിന്റെ അങ്ങേയറ്റത്തെ രൂപം നിരാശയെ സൂചിപ്പിക്കുന്നു ആംഗ്യങ്ങൾ പോലെ മുഷ്ടി പിടിക്കുക മുടിയിലൂടെ കൈ തിരുകുക കഴുത്തിന്റെ പുറകിൽ തിരുകുകുക അതിനാൽ ഇവയെല്ലാം വ്യക്തി നിരാശനാണെന്ന് സൂചിപ്പിക്കാൻ കഴിയും വളരെ പെട്ടെന്നുള്ള ചില പെരുമാറ്റങ്ങളും വ്യാഖ്യാനങ്ങളും നമുക്ക് നോക്കാം ചെറുതായി ചരിഞ്ഞ തല നിങ്ങളുടെ സംസാരത്തിൽ ആ വ്യക്തിക്ക് താൽപ്പര്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു ചവിട്ടുന്ന താടി ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നു മുഖം താഴേക്ക് നോക്കുന്നു അതിനാൽ മുഖം താഴേക്ക് നോക്കുന്നു അതിനാൽ നിങ്ങളെ വിശ്വസിക്കുന്നില്ല നഖങ്ങൾ കടിക്കുക അരക്ഷിതാവസ്ഥ പരിഭ്രാന്തി കൈകൾ തേക്കുക പ്രതീക്ഷകൾ അതിനാൽ നിങ്ങൾ ചെറിയ കുട്ടികളോട് പറയുമ്പോൾ നിങ്ങൾ കണ്ടിരിക്കാം ഒന്നുകിൽ മാതാപിതാക്കളായോ അല്ലെങ്കിൽ ഒരു അധ്യാപകനായോ നിങ്ങൾ പറയുന്നു ഓ ഈ വാരാന്ത്യത്തിൽ നമുക്ക് ഒരു പിക്നിക്കിന് പോകാം അതിനാൽ കുട്ടികൾ ഉടൻ തന്നെ ഇതുപോലെ ചെയ്യുന്നു ഓ വൌ ഞാൻ തയ്യാറാണ് നമ്മൾ എവിടെ പോകുന്നു അതിനാൽ കൈകൾ തടവുക എന്നത് പ്രതീക്ഷകളെ സൂചിപ്പിക്കുന്നു ചെവിയിൽ വലിക്കുകയോ വലിച്ചിടുകയോ ചെയ്യുന്നത് അനിശ്ചിതത്വത്തെ അർത്ഥമാക്കാം അതിനാൽ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല കൈകൊണ്ട് കവിൾ അതിനാൽ കൈകൊണ്ട് കവിൾ വിലയിരുത്തൽ ചിന്ത സ്പർശിക്കൽ മൂക്ക് ചെറുതായി തടവുക ഇത് നിരസിക്കൽ സംശയം നുണ കണ്ണ് തടവുക വീണ്ടും സംശയം അവിശ്വാസം കൈകൾ പുറകിൽ പിടിക്കുക എന്നിവയെ അർത്ഥമാക്കാം ഞാൻ ക്വിസിൽ ഒരു ചിത്രം പോലും കാണിച്ചു അത് ദേഷ്യവും നിരാശയും ഭയവുമാണ് പക്ഷേ ഇത് തലയുടെ പിൻഭാഗത്തല്ല മറിച്ച് കൈകൾ പുറകിൽ പിടിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾ അത് അടങ്ങിയിട്ടുണ്ടെന്ന് മറച്ചുവെക്കുന്നു നിങ്ങൾക്ക് ദേഷ്യവും നിരാശയും ഭയവുമുണ്ടെന്ന് ഇത് കാണിക്കും പൂട്ടിയ കണങ്കാലുകൾ വീണ്ടും ഭയം വിരൽ നഖങ്ങൾ പരിശോധിക്കുകയോ ഒരു വാച്ച് നോക്കുകയോ ചെയ്യുക അതിനാൽ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ആ വ്യക്തി വിരൽ നഖങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുകയോ ഇടയ്ക്കിടെ വാച്ച് നോക്കുകയോ ചെയ്യുന്നു അതിനാൽ എനിക്ക് ബോറടിക്കുന്നുവെന്നോ അത് അഹങ്കാരം കാണിക്കുന്നുവെന്നോ ഇത് സൂചിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ ഏത് തരത്തിലുള്ള അസംബന്ധമാണ് സംസാരിക്കുന്നത് അതിനാൽ ഇത് ശരിക്കും ബോറടിപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ ആരെങ്കിലും നിങ്ങളെ ശരിക്കും ബോറടിപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ വിരൽ നഖങ്ങൾ നോക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ ബോറടിപ്പിക്കുന്നുവെന്നോ നിങ്ങളുടെ കൈയിലോ ചുമരിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്ലോക്കിലോ നോക്കുന്നുവെന്നോ സൂചിപ്പിക്കുമെന്ന് നിർദ്ദേശിക്കപ്പെടുന്നു ഇടയ്ക്കിടെ ഇത് നോക്കുന്നത് നിങ്ങൾക്ക് ബോറടിക്കുന്നുവെന്നും നിങ്ങൾ എന്റെ സമയം പാഴാക്കുകയാണെന്നും സൂചിപ്പിക്കുന്നു കയ്യിൽ തലവെച്ച് വിശ്രമിക്കുക കണ്ണുകൾ വീണ്ടും താഴുക എന്നത് വിരസതയെ അർത്ഥമാക്കുന്നു ഞാൻ വീണ്ടും ഒരു ചിത്രം കാണിച്ചു അതിനാൽ ക്വിസിൽ അത് വിരസതയാണെന്ന് സൂചിപ്പിക്കാൻ കഴിയും വേഗതയുള്ള നേരായ നടത്ത ആത്മവിശ്വാസം അതിന് വിപരീതമായി അതിനാൽ നടത്തം ചരിഞ്ഞിരിക്കുകയും തുടർന്ന് തല മന്ദഗതിയിലാകുകയും തുടർന്ന് നിരാശപ്പെടുകയും ചെയ്താൽ ഞാൻ അത് അവസാനം വയ്ക്കുന്നു പോക്കറ്റിൽ കൈകൾ വെച്ചും തോളിൽ വേട്ടയാടിയും നടക്കുന്നത് നിരാശാജനകമാണ് അരക്കെട്ടിൽ കൈകൾ വെച്ചുകൊണ്ട് നിൽക്കുന്നത് സന്നദ്ധതയെ അർത്ഥമാക്കാം ഞാൻ തയ്യാറാണ് പക്ഷേ അത് ആക്രമണത്തെയും അർത്ഥമാക്കാം കാലുകൾ മുറിച്ചുകടന്ന് ഇരിക്കുന്നതും കാലുകൾ ചെറുതായി ചവിട്ടുന്നതും വിരസതയെ സൂചിപ്പിക്കുന്നു കാലുകൾ വേർതിരിച്ച് ഇരിക്കുക തുറക്കുക വിശ്രമിക്കുക നെഞ്ചിൽ കൈകൾ തിരിക്കുക പ്രതിരോധശേഷി ചിലപ്പോൾ ആളുകൾ ഫോൾഡർ പോലും ഉപയോഗിക്കുന്നു തുടർന്ന് അവർ അത് അവിടെ വയ്ക്കുന്നു അതിനാൽ അവരുടെ മുന്നിൽ ഇരിക്കുന്ന വ്യക്തിയോട് അവർക്ക് സുഖമില്ലെന്ന് സൂചിപ്പിക്കുന്നു പോക്കറ്റിൽ കൈകൾ വെച്ചും തോളിൽ വേട്ടയാടിയും നടക്കുന്നത് വിഷാദത്തെ സൂചിപ്പിക്കുന്നു കൈകൾ തലയ്ക്ക് പിന്നിൽ പിടിച്ച് ഇരുന്ന് കാലുകൾ മുറിച്ചു അതിനാൽ ക്വിസിൽ ഒരു ചിത്രം ഉണ്ടായിരുന്നു ബോസ് ഇതുപോലെ ഇരിക്കുന്നു തുടർന്ന് അത് ആത്മവിശ്വാസവും ശ്രേഷ്ഠതയും കാണിക്കുന്നു തുറന്ന കൈപ്പത്തി ആത്മാർത്ഥത തുറന്ന മനസ്സ് നിഷ്കളങ്കത പോലും അതിനാൽ നിങ്ങളെപ്പോലുള്ള കുട്ടികൾ അവരോട് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നെ കാണിക്കൂ അവർ ഇതുപോലെ കാണിക്കും അതിനാൽ ഇല്ല എനിക്ക് ഒന്നും ഇല്ലെന്ന് സൂചിപ്പിക്കുന്നു നിഷ്കളങ്കത മൂക്കിൻറെ പിഞ്ചിംഗ് ബ്രിഡ്ജ് പ്രത്യേകിച്ച് കണ്ണുകൾ അടച്ചു അതിനാൽ അത് മൂല്യനിർണ്ണയമാണ് വിരലുകളിൽ തട്ടുകയോ തുഴയുകയോ ചെയ്യുന്നത് അക്ഷമതയാണ് നിവർന്നുനിൽക്കുന്ന വിരലുകൾ ആധികാരികം പാറ്റിംഗ് ഫാൻഡ്ലിംഗ് മുടി തടവുക ആത്മവിശ്വാസക്കുറവ് അരക്ഷിതാവസ്ഥ അതിനാൽ നിങ്ങൾ പ്രത്യേകിച്ചും കീഴുദ്യോഗസ്ഥരെ കാണും അവർ മേലധികാരിയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ കുറച്ച് പണം ചോദിക്കുമ്പോൾ അതിനാൽ അവർ മുടി ചൊറിയാൻ ശ്രമിക്കും സർ ഞാൻ നിങ്ങളോട് ഈ കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ അത് ആത്മവിശ്വാസക്കുറവും അരക്ഷിതാവസ്ഥയും കാണിക്കുന്നു ഇപ്പോൾ ഞാൻ ചർച്ച ചെയ്യുന്നതെന്തും നിങ്ങളുടെ സെല്ലുകളിലെ അടിസ്ഥാനകാര്യങ്ങളാണ് എന്നാൽ നിങ്ങൾ അത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അത് ഉചിതമായി ഉപയോഗിക്കേണ്ടതുണ്ട് എന്നതിനാൽ അവ ഒരു നുള്ള് ഉപ്പ് ഉപയോഗിച്ച് സൂക്ഷിക്കുക അടുത്ത പ്രഭാഷണത്തിൽ അത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാമെന്നും യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്നും നോക്കാം എന്നാൽ ഞാൻ അവസാനിപ്പിക്കുന്നതിനുമുമ്പ് ശരീരഭാഷയെക്കുറിച്ചുള്ള ചില ചിന്തകൾ കൂടി ഈ ശരീരഭാഷ ഉചിതമായി ഉപയോഗിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ശരീരഭാഷ നമ്മിൽ സ്വതസിദ്ധമാണെന്നതിനാൽ അത് നമ്മിലാണ് അത് നമ്മുടെ ശരീരത്തിലാണ് അത് നമ്മുടെ സിസ്റ്റത്തിലാണ് അത് നമ്മുടെ തലച്ചോറിലാണ് അത് നമ്മുടെ പെരുമാറ്റത്തിലാണ് അതിനാൽ നിങ്ങൾ പുറത്തുനിന്ന് എന്തെങ്കിലും കൊണ്ടുവരേണ്ടതില്ല ഒരു സാധാരണ മനുഷ്യനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു അന്ധനായ വ്യക്തി പോലും ശരീരഭാഷ സമാനമായ രീതിയിൽ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് അവർ വിജയിക്കുമ്പോൾ ഇരുവരും കൈകൾ ഉയർത്തുന്നു അതിനാൽ അവർ ദുഃഖിതരാകുമ്പോൾ മുഖം രണ്ട് മുഖങ്ങളിലും ഒരേ തരത്തിലുള്ള വേദനയെ സൂചിപ്പിക്കുന്നു വ്യക്തി അന്ധനാണോ അതോ വ്യക്തിക്ക് സാധാരണ കാണാൻ കഴിയുമോ എന്ന് അതിനാൽ ഒരു അന്ധൻ പോലും ശരീരഭാഷയിൽ ഫലപ്രദമായി പ്രകടിപ്പിക്കുന്നു അതിനാൽ ഇത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒന്നാണ് അതിനാൽ മറ്റുള്ളവരിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളിൽ ഉൾക്കൊള്ളേണ്ട മിക്ക വൈകാരിക ആവിഷ്കാരങ്ങളും യഥാർത്ഥത്തിൽ ഒളിഞ്ഞിരിക്കുന്നു അതിനാൽ അവ മറഞ്ഞിരിക്കുന്നു അവ മറഞ്ഞിരിക്കുന്നു നിങ്ങൾ അത് ആരിൽ നിന്നും കടം വാങ്ങേണ്ടതില്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ചീത്തയെ നിയന്ത്രിക്കണം എന്നാൽ നിങ്ങൾ പ്രവർത്തിക്കുകയും നല്ലത് പ്രകടമാക്കാൻ ശ്രമിക്കുകയും വേണം നിങ്ങൾ അവയ്ക്ക് പേറ്റന്റ് നൽകണം നിങ്ങളിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങൾ അവ പുറത്തെടുക്കണം അത് പുറത്തുവരണം ഇപ്പോൾ ഞാൻ നൽകിയ നിർദ്ദേശങ്ങൾ ഞാൻ ഏതുതരം ആംഗ്യങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് ആദർശപരമായി പറഞ്ഞാൽ നിങ്ങൾ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കേണ്ടതുണ്ട് നിങ്ങൾ എന്തെങ്കിലും പരിശീലിക്കുമ്പോൾ നിങ്ങളുടെ ആംഗ്യങ്ങൾ നോക്കുക എന്നാൽ അതിലുപരിയായി നിങ്ങൾ ചെയ്യുന്ന സ്വമേധയാ ഉള്ള ആംഗ്യങ്ങളിൽ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട് നിങ്ങൾ ഒരു ഗ്രൂപ്പിലായിരിക്കുമ്പോൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങളുടെ അറിവില്ലാതെ വീഡിയോകൾ നിർമ്മിക്കാൻ ആരോടെങ്കിലും ആവശ്യപ്പെടുക പിന്നെ സുഹൃത്ത് നിങ്ങളോട് അടുപ്പത്തിലാണെങ്കിൽ നിങ്ങൾ സുഹൃത്തിനൊപ്പം ഇരുന്ന് നിങ്ങളുടെ സ്വന്തം പെരുമാറ്റം വിശകലനം ചെയ്യാൻ ശ്രമിക്കുക സുഹൃത്തിനോട് ചോദിക്കുക സ്വയം ചോദിക്കുക നിങ്ങളുടെ പെരുമാറ്റങ്ങളിൽ ഏതാണ് സ്വീകാര്യമായത് ഏത് പദപ്രയോഗങ്ങളാണ് നിങ്ങൾക്ക് മാറ്റാൻ കഴിയുക നിങ്ങൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക നിങ്ങൾ എപ്പോഴാണ് പ്രതിരോധാത്മകമായി പെരുമാറുന്നത് എപ്പോഴാണ് നിങ്ങൾ കുറ്റകരമായ രീതിയിൽ പെരുമാറുന്നത് മറ്റുള്ളവർക്ക് നൽകിയ ശരീരഭാഷ സൂചനകൾ എന്തായിരുന്നു നിങ്ങൾ അക്രമാസക്തനാണെന്ന് സൂചിപ്പിക്കുന്നു നിങ്ങൾ ഭയപ്പെടുന്നു നിങ്ങൾ ആത്മവിശ്വാസത്തിലാണെന്നും നിങ്ങൾ സന്തുഷ്ടനാണെന്നും സൂചിപ്പിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന സൂചനകൾ എന്തായിരുന്നു അതിനാൽ മൊത്തത്തിൽ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും നിങ്ങൾക്ക് ആവശ്യമുള്ളത് നേടുന്നതിനും ശരീരഭാഷ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഒരു സമാപന ചിന്ത എന്ന നിലയിൽ ശരീരം ഒരിക്കലും കള്ളം പറയില്ലെന്ന് പറയുന്ന മാർത്ത ഗ്രഹാമിന്റെ ഒരു ഉദ്ധരണി നിങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു നല്ല ശീലമെന്ന നിലയിൽ നിങ്ങൾ എല്ലായ്പ്പോഴും സത്യം സംസാരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നെ നോക്കി ചിരിക്കുകയും പറയും ഓ ഈ ലോകം നുണകൾ നിറഞ്ഞതാണ് പിന്നെ എനിക്ക് എങ്ങനെ എല്ലായ്പ്പോഴും സത്യം സംസാരിക്കാൻ കഴിയും പിന്നെ ഈ ലോകം മഹാത്മാഗാന്ധിയെയോ ഹരിശ്ചന്ദ്രയെയോ പോലുള്ള ആളുകൾക്കുള്ളതല്ല അതിനാൽ നമുക്ക് നുണകൾ പറയണം നുണകൾ പറയാതെ നമുക്ക് അതിജീവിക്കാൻ കഴിയില്ല ഇപ്പോൾ നിങ്ങൾക്ക് അത്തരം ചിന്തയുണ്ടെങ്കിൽ ഈ ഉദ്ധരണി നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ നുണ പറയുന്നു അതായത് വാക്കുകളുടെ 7 ശതമാനം നിങ്ങൾ മറ്റുള്ളവരോട് എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ നിങ്ങളുടെ ശരീരത്തിന്റെ 93 ശതമാനവും മറ്റ് ആളുകൾ യഥാർത്ഥത്തിൽ കാണുന്ന ആഘാതവും നിങ്ങളുടെ ശരീരഭാവങ്ങളുടെ 100 ശതമാനവും അവർ ഒരിക്കലും ഒരു നുണ പറയില്ല നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു നിങ്ങളുടെ മുന്നിലുള്ള വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം മറ്റേയാൾ വളരെ സുതാര്യമായ രീതിയിലാണ് കാണുന്നത് നിങ്ങളുടെ ശരീരം മുഴുവൻ കഥയും പറയുന്നു നിങ്ങളുടെ ശരീരം യഥാർത്ഥത്തിൽ ആത്മകഥയാണ് മറ്റുള്ളവർക്ക് അത് വളരെ എളുപ്പത്തിൽ വായിക്കാൻ കഴിയും അതിനാൽ നിങ്ങളുടെ ശരീരം ഒരിക്കലും നുണ പറയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല നിങ്ങൾ എല്ലായ്പ്പോഴും നുണ പറയുകയും ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യും ആളുകൾ നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല ശരീരം നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് അവർ കാണാൻ പോകുന്നു അവർ നിങ്ങളോട് പറയുന്നില്ല അവർ ശരീരത്തെ നോക്കുന്നു അതാണ് അവരുടെ മനസ്സ് നേടാൻ ശ്രമിക്കുന്നത് അവർക്ക് അവബോധജന്യമായ ഒരു വികാരം ലഭിക്കുന്നു പക്ഷേ നമ്മുടെ എല്ലാ അവബോധജന്യ വികാരങ്ങളും യഥാർത്ഥത്തിൽ നയിക്കപ്പെടുന്നത് വൈകാരിക ആവിഷ്കാരങ്ങളാലും ശരീരഭാഷയുടെ സൂചനകളാലും ആണ് അതിനാൽ ശരീരം ഒരിക്കലും കള്ളം പറയില്ല വാക്കാലുള്ളതും അല്ലാത്തതുമായ ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ സത്യം സംസാരിക്കുക അതിനാൽ ഈ ചിന്തയോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ നന്ദി ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി അടുത്ത പ്രഭാഷണത്തിൽ നിങ്ങളുടെ ശരീരഭാഷ മെച്ചപ്പെടുത്തുന്നതിനുള്ള കൂടുതൽ നിർദ്ദേശങ്ങളുമായി ഞാൻ മടങ്ങിവരും